ഈ കോഴ്സിൽ ആരംഭിക്കുന്നതിനു മുമ്പുള്ള അവസാന ഉദാഹരണത്തിൽ ഡോക്യൂമെന്റുകൾ ഉൾപ്പെടുന്ന ഒരു പ്രശ്നം നോക്കാം നമുക്ക് രണ്ട് ഡോക്യൂമെന്റുകളുണ്ട് അവ എത്രത്തോളം സമാനമാണെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ രണ്ട് ഡോക്യൂമെന്റുകളും ഒരേ ഫീൽഡിന്റെ വ്യതിയാനങ്ങളാണ് ഈ പ്രോബ്ലം പരിഗണിക്കപ്പെടേണ്ടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടാകാം അതിലൊന്ന് കോപ്പിയടിക്കൽ കണ്ടെത്തലിനാണ് ഒരു പത്രത്തിലോ വെബ്സൈറ്റിലോ കണ്ട ഒരു ലേഖനത്തിന് അതിന്റെ രചയിതാവ് സ്വയം എഴുതിയതല്ലെന്നും അവർ ഈ ലേഖനം മറ്റെവിടെ നിന്നെങ്കിലും പകർത്തിയതാണ് എന്നും നിങ്ങൾ സംശയിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സിലെ അധ്യാപകനാണെങ്കിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒരേ അസൈൻമെന്റുകൾ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മറ്റു ചില ഉറവിടങ്ങളിൽ നിന്ന് ഒരു അസൈൻമെന്റ് മുഴുവനായോ അല്ലെങ്കിൽ അതിന്റെ ചില വിശദാംശങ്ങൾ പകർത്തിയെന്നോ സംശയിക്കുന്ന സാഹചര്യം ഇപ്പോൾ രണ്ട് ഡോക്യൂമെന്റുകൾ എത്രത്തോളം സമാനമാണ് എന്ന് നോക്കി ഒരാശയം മറ്റൊരാളിൽ നിന്ന് ആരോ പകർത്തിയതാണോയെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ ശ്രമിക്കാം ഇതിന് എല്ലായ്പ്പോഴും ഇതുപോലുള്ള ഒരു നെഗറ്റീവ് മാനം മാത്രം ഉണ്ടാകണമെന്നില്ല ചില ആളുകൾ സാധാരണഗതിയിൽ ചില ആപ്ലിക്കേഷനുകൾക്കായി പ്രോഗ്രാമുകൾ എഴുതുമ്പോൾ കാലാകാലങ്ങളിൽ പ്രോഗ്രാമുകളിൽ സവിശേഷതകൾ ചേർക്കുന്നു അത്തരത്തിൽ പ്രോഗ്രാമുകൾ വികസിച്ച് കഴിയുമ്പോൾ രണ്ട് വ്യത്യസ്ത കോഡുകൾ പരിശോധിച്ച് സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് മനസിലാക്കാൻ അവ എത്രത്തോളം സമാനമാണ് അവ എത്ര വ്യത്യസ്തമാണ് അതിൽ സംഭവിച്ച യഥാർത്ഥ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക് മുകളിൽ പറഞ്ഞ രീതി അവലബിക്കാവുന്നതാണ് ഡോക്യൂമെന്റുകളുടെ സമാനത പോസിറ്റീവായി ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു സ്ഥലം വെബ് സേർച്ച് ആണ് നമ്മൾ ഒരു സേർച്ച് എഞ്ചിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഫലങ്ങൾ റിപ്പോർട്ടുചെയ്യുമ്പോൾ സമാനമായ ഫലങ്ങൾ ഗ്രൂപ്പുചെയ്യാൻ ശ്രമിക്കുന്നു കാരണം അവ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ഉത്തരങ്ങളല്ല ഇപ്പോൾ ഒരേ ഡോക്യൂമെന്റു 10 വ്യത്യസ്ത പകർപ്പുകളോ സമാനമായ പകർപ്പുകളോ ഉണ്ടെങ്കിൽ ഇവ നിങ്ങളുടെ ആദ്യത്തെ 10 തിരയൽ ഫലങ്ങളായി കാണിക്കുന്നു എന്നാൽ ഇത് വളരെ പ്രസക്തവും ഇവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തവുമായ മറ്റൊരു ഡോക്യൂമെന്റു തിരയൽ ഫലങ്ങളുടെ ആദ്യ പേജിൽ കാണിക്കാതിരിക്കാൻ കാരണമാകുന്നു അതിനാൽ ഒരു തിരയൽ അന്വേഷണത്തിന്റെ ഫലങ്ങൾ സമാനതയോടെ ഗ്രൂപ്പുചെയ്യാൻ കഴിയുന്നത് ഉപയോഗപ്രദമാണ് അതുവഴി ചോദ്യത്തിനുള്ള ഒരേ ഉത്തരത്തിന്റെ പല വ്യതിയാനങ്ങൾ മാത്രമല്ല വ്യത്യസ്ത ഉത്തരങ്ങൾക്കിടയിലുള്ള ഫലപ്രദമായ തിരഞ്ഞെടുപ്പ് ഉപയോക്താവിനു സാധിക്കുന്നു ഇതെല്ലാമാണ് നമ്മുടെ പ്രചോദനമാണെങ്കിൽ ഡോക്യൂമെന്റുകളുടെ സമാനതകൾ താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം നമുക്ക് ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വച്ച നിരവധി വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട് വ്യക്തമായും ഇതിന് അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്രമത്തിലും മറ്റും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഒരു ഡോക്യൂമെന്റിനെ മറ്റൊരു ഡോക്യൂമെന്റാക്കി പരിവർത്തനം ചെയ്യുവാൻ എത്ര മാറ്റങ്ങൾ വരുത്തണം അതായത് ഡോക്യൂമെന്റുകൾ തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം എഡിറ്റ് ഡിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നു പരിവർത്തനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്ററിലോ വേഡ് പ്രോസസ്സറിലോ ഡോക്യൂമെന്റുകൾ ലോഡുചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായും മുഴുവൻ ഡോക്യൂമെന്റൂം ഡിലീറ്റ് ചെയ്തു മറ്റൊരു ഡോക്യൂമെന്റു അവിടെ പേസ്റ്റ് ചെയ്ത് രണ്ട് ഘട്ടങ്ങളായി എഡിറ്റു ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് ഒരുതരം വഞ്ചനയാകാം അതിനാൽ എഡിറ്റിംഗിനായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടതും അത് കണക്കാക്കുന്നതിനുള്ള ഏകീകൃത മാർഗ്ഗങ്ങളും നമുക്ക് ആവശ്യമുണ്ട് അതിനാൽ എത്ര പ്രതീകങ്ങൾ മാറുന്നു എന്നത് എഡിറ്റിൽ ഉൾപ്പെടുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും എഡിറ്റിംഗിന്റെ ഓരോ ഘട്ടവും ഒരു അക്ഷരം ചേർക്കുകയോ നീക്കംചെയ്യുകയോ ചെയ്യും ഒരുപക്ഷേ ഒരു അക്ഷരം മറ്റൊരു അക്ഷരം ഉപയോഗിച്ച് മാറ്റി പകരം വയ്ക്കുകയോ ആവാം അതിനാൽ അക്ഷരം ചേർക്കുന്നതോ നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരക്ഷരം മറ്റൊന്നിനാൽ മാറ്റി സ്ഥാപിക്കുതോ എഡിറ്റിംഗിന്റെ അടിസ്ഥാന ഘട്ടങ്ങളായി കണക്കാക്കാവുന്നതാണ് കൂടാതെ ഒരു ഡോക്യൂമെന്റ് എഡിറ്റുചെയ്ത് മറ്റൊരു ഡോക്യൂമെണ്ടാക്കുവാൻ എത്ര ഘട്ടങ്ങൾ എടുക്കുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ എഡിറ്റ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എഡിറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഇപ്പോൾ ഒരു പ്രോബ്ലമെന്ന നിലയിൽ നമുക്കുള്ള ചോദ്യം ഈ കുറഞ്ഞ ദൂരം എങ്ങനെ കണക്കാക്കും എന്നതാണ് ഒരു ഡോക്യൂമെന്റു എഡിറ്റു ചെയ്ത് മറ്റൊരു ഡോക്യൂമെന്റാനുമുള്ള ഏറ്റവും നല്ല മാർഗം ഏതെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും തീർച്ചയായും ബ്ലോക്ക് കട്ട് ബ്ലോക്ക് സ്പേസ് പോലുള്ള നിസ്സാര പരിഹാരം എല്ലായ്പ്പോഴും ഉണ്ട് അതായത് ഡോക്യൂമെന്റിലെ എല്ലാ അക്ഷരങ്ങളും ഡിലീറ്റ് ചെയ്യാനും പുതിയ ഡോക്യൂമെന്റുകൾ ടൈപ്പുചെയ്യാനും നമുക്ക് കഴിയും ഇത് ചെയ്യുന്നതിന് ഒരു ബ്രൂട് ഫോഴ്സ് മാർഗ്ഗവുമുണ്ട് പക്ഷേ ഇത് ഒരു മികച്ച സാധ്യതയായിരിക്കില്ല നമുക്ക് സാധ്യമായ എല്ലാ ഡിലീറ്റ് ഇൻസേർട് സീക്വൻസുകളും പരീക്ഷിക്കാനും അവയിൽ ഏതാണ് മികച്ച പരിഹാരങ്ങൾ നൽകുന്നതെന്ന് കാണാനും കഴിയും എന്നാൽ ഇവയെല്ലാം വളരെ കാര്യക്ഷമമല്ലാത്ത പരിഹാരങ്ങളാണ് നമുക്ക് പ്രോബ്ളം ഡീകമ്പോസ് എന്ന ചോദ്യത്തിലേക്ക് വീണ്ടും പോകാം നമ്മുടെ ആദ്യ ലക്ഷ്യം എന്നത് രണ്ട് ഡോക്യൂമെന്റുകളുടെ ആദ്യ അക്ഷരം സമാനമാക്കുക എന്നതാണ് അവ ഇതിനകം തന്നെ സമാനമാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു അവ സമാനമല്ലെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് ഒന്നുകിൽ നമുക്ക് ആദ്യത്തെ അക്ഷരങ്ങൾ തുല്യമാകുന്ന വിധത്തിൽ അക്ഷരങ്ങൾ മാറ്റി എഴുതുക അല്ലെങ്കിൽ രണ്ട് ഡോക്യൂമെന്റുകളിൽ ഒന്നിൽ ഒരു അക്ഷരം എഴുതിച്ചേർക്കാം ഉദാഹരണത്തിന് ആദ്യത്തെ ഡോക്യൂമെന്റ് x ഉപയോഗിച്ച് ആരംഭിക്കുകയും രണ്ടാമത്തെ ഡോക്യൂമെന്റു z ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഒന്നുകിൽ x നെ z ആക്കുന്നതിനോ z നെ x ആക്കുന്നതിനോ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുവെന്ന് പറയാം അല്ലെങ്കിൽ x ന് മുമ്പ് z അല്ലെങ്കിൽ z ന് മുമ്പ് x ചേർക്കാം പക്ഷേ നമുക്ക് അതേ ഉത്തരം ലഭിക്കണമെന്നില്ല ഒരിക്കൽ നമ്മൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ അതായത് ആദ്യത്തെ അക്ഷരം അതേപടി മാറ്റിയാൽ ബാക്കി ഡോക്യൂമെന്റിൽ ഇതേകാര്യം നമുക്ക് ആവർത്തിച്ച് ശ്രമിക്കാവുന്നതാണ് ഈ രീതിയിൽ റിക്കർഷൻ നടത്തുമ്പോൾ ഇപ്പോൾ നാം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഒരേ ഉപ പ്രോബ്ളം പലതവണ കണ്ടുപിടിക്കേണ്ടി വരുന്നു എന്നതാണ് n ഫിബൊനാച്ചി കണ്ടെത്തുന്നതിനുള്ള റിക്കർസീവ് പരിഹാരമാണ് ഇതിന്റെ ഒരു സാധാരണ ഉദാഹരണം ഫിബൊനാച്ചി സംഖ്യകൾ ഒരു വളരെ ക്ലാസിക്കൽ ശ്രേണിയാണ് ആദ്യത്തെ രണ്ട് ഫിബൊനാച്ചി നമ്പറുകൾ 1 ഉം 1 ഉം ആണ് ഇതിനുശേഷം നിങ്ങൾക്ക് തൊട്ടു മുമ്പത്തെ രണ്ടു സംഖ്യകൾ കൂട്ടി അടുത്ത ഫിബൊനാച്ചി നമ്പർ കണ്ടുപിടിക്കാം അതിനാൽ 1 1 ന് ശേഷം അടുത്തത് 2 ആണ് അത് 1 പ്ലസ് 1 ആണ് അടുത്തത് 1 പ്ലസ് 2 ആയ 3 ആണ് 5 എന്നത് 2 പ്ലസ് 3 ആണ് അതിനാൽ പൊതുവേ റിക്കർസീവ് ബന്ധം നൽകുന്നത് fn എന്നത് n മൈനസ് 1 n മൈനസ് 2 എന്നീ മുമ്പത്തെ രണ്ട് അക്കങ്ങളുടെ ആകെത്തുകയാണ് ഒരു അടിസ്ഥാന കേസായി ആദ്യത്തെ രണ്ട് അക്കങ്ങളായ f 1 f 2 എന്നിവയുണ്ട് n മൈനസ് 1 n മൈനസ് 2 എന്നിവ ഈ രണ്ട് അക്കങ്ങൾക്ക് നിർവചിക്കപ്പെടില്ല ഇപ്പോൾ നിങ്ങൾ ഏഴാമത്തെ ഫിബൊനാച്ചി നമ്പർ കണക്കുകൂട്ടാൻ റിക്കർഷൻ നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനായി f 6 പ്ലസ് f 5 കണക്കുകൂട്ടേണ്ടതുണ്ട് എന്നാൽ ഈ f 6 f 5 എന്നിവ കണ്ടുപിടിക്കുന്നതിനിടയിൽ f 4 പോലുള്ളവ രണ്ടുതവണ വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് അതിനാൽ നമുക്ക് ഒരു f 4 ഉണ്ട് അത് f 5 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ വരുന്നു പിന്നീട് f 6 കണ്ടുപിടിക്കുവാൻ റിക്കർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ f 5 കണക്കുകൂട്ടുന്നു അവിടെ യഥാർത്ഥത്തിൽ മറ്റൊരു f 4 ലഭിക്കുന്നു അതായത് ഈ f 4 ഞാൻ നിരവധി തവണ കണക്കുകൂട്ടുന്നു അതേപോലെതന്നെ f 3 യും മറ്റും നിരവധി തവണ കണ്ടുപിടിക്കേണ്ടി വരും അതിനാൽ ഇത് f 7 കണക്കാക്കാനുള്ള ഒരു കാര്യക്ഷമമായ മാർഗമല്ല അതായത് ഞാൻ 1 2 3 5 8 13 21 എന്ന ഫിബൊനാച്ചി ശ്രേണി കണ്ടുപിടിച്ചു അതിൽ ഏഴാമത്തെ നമ്പർ കണ്ടെത്തുമ്പോൾ പല ഉപ പ്രോബ്ലങ്ങളും ഒന്നിൽകൂടുതൽ പ്രാവശ്യം കണ്ടുപിക്കപ്പെടേണ്ടി വരുന്നു റിക്കർഷനെ ഉപയോഗപ്രദമാണ് പക്ഷേ ആവർത്തിച്ച് ചെയ്താൽ വീണ്ടും വീണ്ടും ചില ഉപ പ്രോബ്ലങ്ങൾ നിരവധിതവണ പരിഹരിക്കുപ്പെടേണ്ടതായി വരുന്നു അതിനാൽ ഇത് ചെയ്യാൻ ഡൈനാമിക് പ്രോഗ്രാം എന്ന് വിളിക്കപ്പെടുന്ന വളരെ വേഗതയുള്ള ഒരു മാർഗമുണ്ട് ഒരേ ഉപ പ്രോബ്ലങ്ങൾ രണ്ടുതവണ കണക്കാക്കരുതെന്ന് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പറയുന്നു നമ്മൾ പ്രോബ്ലങ്ങൾ പരിഹരിക്കുമ്പോഴെല്ലാം f 4 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക വീണ്ടും f 4 കണ്ടുപിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക ഇത് ഈ കോഴ്സിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതും ഇനി ഉപയോഗിക്കുവാൻ പോകുന്നതുമായ ഒരു മാർഗ്ഗമാണ് കൂടാതെ പ്രോബ്ലങ്ങൾ ഉപപ്രോബ്ലങ്ങളായി മാറ്റുമ്പോൾ ഉപപ്രോബ്ലത്തിന്റെ ഘടനയെ ആഴത്തിൽ പരിശോധിക്കുകയും അവ കാര്യക്ഷമമായി പരിഹരിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട് പതിവുപോലെ രണ്ട് ഡോക്യൂമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമോ സമാനതയോ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം പല തലങ്ങളിൽ ആകാം നമ്മൾ യഥാർത്ഥ വാചകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു നമ്മൾ പദങ്ങളുടെ ക്രമം ശരിക്കും നോക്കുന്നില്ലെങ്കിൽ നമുക്ക് വാക്കുകളുടെ ഒരു കൂട്ടം മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് വാക്കുകൾ പുനക്രമീകരിച്ച് എഡിറ്റ് ഡിസ്റ്റൻസ് കണക്കാക്കാം എന്നാൽ ഏത് തരത്തിലുള്ള പദങ്ങളാണുള്ളതെന്നും അവയുടെ അർത്ഥവും കണക്കാക്കിയാൽ ഡോക്യൂമെന്റുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും അതിനാൽ നമ്മൾ ഒരു സാധാരണ സെർച്ച് എഞ്ചിനിൽ ഡോക്യൂമെന്റുകൾ തിരയുന്നുവെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന വാക്കുകൾ പരാമർശിക്കുന്ന ക്രമത്തിൽ ഒരുമിച്ച് കാണണമെന്നില്ല ആ പദങ്ങളുടെ ശേഖരമുള്ള ഡോക്യൂമെന്റുകൾ അത് കണ്ടെത്തും അതിനാൽ വെബ് സെർച്ചിനും വാക്കുകളുടെ അർത്ഥതലത്തിലുള്ള സമാനതകൾ ഉപയോഗിക്കുന്ന മറ്റാവശ്യങ്ങൾക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾ കാർ എന്ന പദം ഉൾക്കൊള്ളുന്ന ഡോക്യൂമെന്റുകൾക്കായി തിരയുമ്പോൾ ഓട്ടോമൊബൈൽ എന്ന പദം ഉൾക്കൊള്ളുന്ന മറ്റു ഡോക്യൂമെന്റുകളുണ്ടെങ്കിൽ ആ ഡോക്യൂമെന്റുകളിലേക്ക് സെർച്ച് എഞ്ചിൻ പോകുന്നത് നല്ല ആശയമായിരിക്കാം കാരണം ഓട്ടോമൊബൈലും കാറും സമാനമാണ് അതിനാൽ നിങ്ങൾ മുമ്പ് കണ്ട മറ്റ് ഉദാഹരണങ്ങൾ പോലെ പല വ്യതിയാനങ്ങളിൽ ഉള്ള പ്രോബ്ലങ്ങളിലും പ്രാദേശികമായുള്ള പരിഹാരങ്ങൾ പൊതുവെയുള്ള പ്രോബ്ളത്തിനു സാധുതയുള്ളതോ അല്ലാത്തതോ ആകാം അതിനാൽ പരിഹരിക്കാനുള്ള പുതിയതും രസകരവുമായ പ്രോബ്ലങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട്